തിരികെ സ്വാഗതം ഞങ്ങൾ ഹീറ്റ് എക്സ്ചേഞ്ചറുകളെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിശകലനം നടത്താൻ ശ്രമിക്കുകയായിരുന്നു ഞങ്ങൾ ഫോർമുലയൊന്നും ഉണ്ടാക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് ഫോർമുല നൽകും അതിനാൽ അത് ഒരുതരം പുനർവിചിന്തനമായിരിക്കും കൂടാതെ ഹീറ്റ് എക്സ്ചേഞ്ചർ വിശകലനത്തിനുള്ള ഫോർമുല ഞാൻ നിങ്ങൾക്ക് നൽകുമ്പോൾ ഞങ്ങൾ അതിന് ചില വിശദീകരണങ്ങളും നൽകും അതിനാൽ ഞങ്ങൾ വളരെ അടിസ്ഥാനപരമായ ആദ്യ രീതിയാണ് ചെയ്തത് അതിനായി LMTD അല്ലെങ്കിൽ ലോഗ് ശരാശരി താപനില വ്യത്യാസം രീതി ഒരു സമാന്തര ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനോ അല്ലെങ്കിൽ ഒരു കൌണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനോ ഉള്ള ശരാശരി താപനില വ്യത്യാസം ഏതെങ്കിലും തരത്തിലുള്ള ലോഗരിഥമിക് പദമാണ് നൽകുന്നത് അതിനാൽ അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ കൂടി സ്ലൈഡിലേക്ക് പോയാൽ അതിനെ ലോഗ് മീഡിയൻ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ LMTD എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്നു അതിനാൽ സൂത്രവാക്യം ഇവിടെ നൽകിയിരിക്കുന്നു തുടർന്ന് ഞങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ എന്താണ് LMTD ഇത് മുഴുവൻ ഹീറ്റ് എക്സ്ചേഞ്ചറിനും ശരാശരി താപനില വ്യത്യാസമാണ് അതിനാൽ നമുക്ക് Q ലഭിക്കുന്നു അതായത് താപ കൈമാറ്റ നിരക്ക് U A ∆TLM ന് തുല്യമാണ് അവിടെ ∆TLM മുകളിൽ നൽകിയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇത് പ്രദേശത്തെ ആശ്രയിച്ചിരിക്കുന്ന ശരാശരി മൊത്തത്തിലുള്ള താപ ട്രാൻസ്ഫർ കോഫിഫിഷ്യന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച വൃത്താകൃതിയിലുള്ള ട്യൂബിനുള്ളിൽ ഒരു വൃത്താകൃതിയിലുള്ള ട്യൂബ് എടുത്താൽ ഒരു ട്യൂബിന് വ്യത്യസ്തമായ ചൂട് എക്സ്ചേഞ്ച് ഏരിയ ഞങ്ങൾ കണ്ടെത്തും ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയയും വൃത്താകൃതിയിലുള്ള ട്യൂബിന് പുറത്ത് നമുക്ക് മറ്റൊരു ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയയും ലഭിച്ചു അതിനാൽ നിങ്ങൾക്ക് സംവഹന താപ കൈമാറ്റം ലഭിക്കുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ പ്രസക്തമാണ് അത് ഞങ്ങൾ കൂടുതലും ആശങ്കാകുലരാണ് വികിരണ താപ കൈമാറ്റത്തിനും ഇത് പ്രധാനമാണ് പക്ഷേ ഞങ്ങൾ കൂടുതലും സംവഹന താപ കൈമാറ്റത്തെക്കുറിച്ചാണ് ശ്രദ്ധിക്കുന്നത് ആ പ്രദേശം നിങ്ങൾ ഇത് ട്യൂബിനുള്ളിൽ നിന്നാണോ അതോ ട്യൂബിന് പുറത്ത് പരിഗണിക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ അതിനെ ആശ്രയിച്ച് വ്യത്യസ്തമായിരിക്കും അതിനാൽ ഏരിയയെ ആശ്രയിച്ചിരിക്കുന്നു ഇവിടെ നമുക്ക് ഈ ഫോർമുല ലഭിച്ചു Q എന്നത് tm ന് തുല്യമാണ് ഡെൽറ്റ T 1 ഡെൽറ്റ T 2 എല്ലാം കൌണ്ടർ ഫ്ലോയ്ക്കും സമാന്തര പ്രവാഹത്തിനുമായി നൽകിയിരിക്കുന്നു രണ്ട് സ്ട്രീമുകൾക്കും തുല്യമാണെങ്കിൽ താപ ശേഷിയുടെ അളവ് കൌണ്ടർ ഫ്ലോയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യമുണ്ടാകാമെന്ന് ഞാൻ വിശദീകരിച്ചു അതായത് ചൂടുള്ള അരുവിക്കും തണുത്ത അരുവിക്കും നമ്മൾ ശരാശരി താപനില വ്യത്യാസം ∆T അല്ലെങ്കിൽ ∆T1 അല്ലെങ്കിൽ ∆T2 ആയി എടുക്കണം ഞാൻ അത് വിശദീകരിക്കാം അല്ലെങ്കിൽ നമുക്ക് അത് ഏതെങ്കിലും തരത്തിലുള്ള മുമ്പത്തെ സ്ലൈഡിലേക്ക് പോയി വിശദീകരിക്കാം അതിനാൽ നമുക്ക് ഈ സ്ലൈഡിലേക്ക് പോകാം അതിനാൽ ചൂടുള്ള ദ്രാവകത്തിനും തണുത്ത ദ്രാവകത്തിനും താപ ശേഷി നിരക്ക് തുല്യമാണെന്ന് നിങ്ങൾ ഇവിടെ കാണുന്നു അതിനാൽ ഇവിടെ താപനില വ്യത്യാസം ∆TTi Tco ആയിരിക്കും ഇവിടെ അത് വീണ്ടും ∆T ആയിരിക്കും നമുക്ക് അവയെല്ലാം ∆T1 ∆T2 ആകാം എന്നാൽ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എല്ലായിടത്തും താപനില വ്യത്യാസം ∆T ആയിരിക്കും അത് ശരാശരി ആയിരിക്കണം താപനില വ്യത്യാസം വ്യക്തമായും അത് ശരാശരി താപനില വ്യത്യാസമായിരിക്കണം ഇപ്പോൾ ഈ 4 താപനിലകൾ ഇൻലെറ്റ് അറ്റത്തുള്ള 2 താപനിലകൾ ഔട്ട്ലെറ്റ് അറ്റത്ത് 2 താപനിലകൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഞങ്ങൾ വിശകലനം ചെയ്തുവെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്തത് ഇത് വളരെ പ്രധാനമാണ് ഇതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് കാരണം ഈ 4 താപനിലയാണ് അളക്കാനാവുന്നതും അറിയപ്പെടുന്നതുമായ മറ്റ് താപനിലകൾ ഹീറ്റ് എക്സ്ചേഞ്ചറുകൾക്കുള്ളിലാണ് മറ്റ് പോയിന്റുകളിൽ ദ്രാവക പ്രവാഹത്തിന്റെ താപനില ഹീറ്റ് എക്സ്ചേഞ്ചറിനുള്ളിൽ നേരിട്ട് അളക്കുന്നത് സാധ്യമല്ല അതിനാൽ ഈ 4 താപനിലകളെ അടിസ്ഥാനമാക്കി നമുക്ക് ചൂട് എക്സ്ചേഞ്ചറിന്റെ പ്രകടനം ഉണ്ടായിരിക്കണം ഇപ്പോൾ സമാന്തര ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനും കൌണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനും ഒരേ ഫോർമുലയിലൂടെ നമുക്ക് താപ കൈമാറ്റ നിരക്ക് ലഭിക്കുന്ന ഒരു ഫോർമുല ലഭിക്കുന്നത് ഇപ്പോൾ ചോദ്യം മറ്റ് പല തരത്തിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ഉണ്ട് എന്നതാണ് ഞങ്ങൾ അവർക്കായി എന്തുചെയ്യും ഞങ്ങൾ ചെയ്യുന്നത് ഇതുപോലെയാണ് മുമ്പത്തെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന LMTD ക്രോസ് ഫ്ലോയുടെയും മൾട്ടി പാസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറുകളുടെയും ഹീറ്റ് ട്രാൻസ്ഫർ വിശകലനത്തിന് ബാധകമല്ല ഒരു മൾട്ടി പാസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനെ കുറിച്ച് ഒരാൾക്ക് ചിന്തിക്കാം ഇതൊരു മൾട്ടി പാസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെന്ന് പറയാം ചൂടുള്ള ദ്രാവകം ഇവിടെ പ്രവേശിക്കുന്നു ചൂടുള്ള ദ്രാവകം ഇവിടെ പോകുന്നു തണുത്ത ദ്രാവകത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടെ പ്രവേശിക്കുമ്പോൾ അത് ഇവിടെ നിന്ന് വരുന്നു ചൂടുള്ള ദ്രാവകം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു അതിനാൽ തണുത്ത ദ്രാവകത്തിന്റെ മുകളിലെ ശാഖയ്ക്കായി നിങ്ങൾ കാണുന്നു ഇത് ഒരു സമാന്തര പ്രവാഹമാണ് കൂടാതെ തണുത്ത ദ്രാവകത്തിന്റെ ഈ ശാഖയ്ക്ക് ഇത് ചൂടുള്ള ദ്രാവകമോ ചൂടുള്ള സ്ട്രീമോ ഉള്ള കൌണ്ടർ ഫ്ലോ ക്രമീകരണമാണ് അതിനാൽ നമുക്ക് തണുത്ത ദ്രാവകത്തിന് 2 പാസ് ഉള്ള ഇത്തരത്തിലുള്ള ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ടെങ്കിൽ ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ നമുക്ക് അതിനെ ഒരു സമാന്തര ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൌണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വിളിക്കാനോ കഴിയില്ല ഹീറ്റ് എക്സ്ചേഞ്ചർ നിരവധി ഉദാഹരണങ്ങളുണ്ട് വളരെ സങ്കീർണ്ണമായ ഉദാഹരണം ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ മറ്റൊന്നാണ് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനായി ഞങ്ങൾ ഒരു ഫോർമുലയും ഉരുത്തിരിഞ്ഞിട്ടില്ല എന്നാൽ ഈ വിശകലനം എങ്ങനെ ചെയ്യാം എന്നാൽ ഫ്ലോ ക്രമീകരണം എന്തായാലും അത് പറയാതെ തന്നെ പോകുന്നു ഈ 4 താപനിലകൾ ഇത് 1 2 3 4 ആണെന്ന് പറയാം ഈ 4 താപനിലകൾ വളരെ പ്രധാനമാണ് ഈ 4 താപനിലകളെ അടിസ്ഥാനമാക്കി ഒരാൾക്ക് ചൂട് എക്സ്ചേഞ്ചറിന്റെ ശരാശരി താപനില വ്യത്യാസത്തിന്റെ ശരാശരി താപനില നിർണ്ണയിക്കാനാകും അതിനാൽ ഒരു രീതി നിർദ്ദേശിച്ചു ഇത് വളരെ ഉപയോഗപ്രദമായ രീതിയാണ് ഞങ്ങൾ എൽഎംടിഡി ഫോർമുല മാത്രം ഉപയോഗിക്കും പക്ഷേ ഞങ്ങൾ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഫാക്ടർ എഫ് ഉപയോഗിച്ച് ഗുണിക്കും അതോടൊപ്പം ഈ എഫ് ആശ്രയിച്ചിരിക്കുന്ന ശരാശരി താപനില വ്യത്യാസം നമുക്ക് ലഭിക്കും തീർച്ചയായും ചില പരാമീറ്ററുകളിൽ ഒന്നാണ് ഈ പരാമീറ്റർ ഇതിനെ പി എന്നും പി യുടെ നിർവചനം എന്നും വിളിക്കുന്നു P യുടെ പദപ്രയോഗത്തിന് യഥാർത്ഥത്തിൽ ദ്രാവകത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന താപം നൽകിയിട്ടുണ്ട് അതേ തണുത്ത ദ്രാവകത്തിന്റെ താപനില ചൂടുള്ള ദ്രാവക ഇൻലെറ്റ് താപനിലയിലേക്ക് ഉയർത്തിയാൽ അത് കൈമാറ്റം ചെയ്യപ്പെടും അതിനാൽ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ താപനില ഫലപ്രാപ്തി ഇതാണ് പി പിന്നെ ഇതും പ്രധാനമാണ് ഇത് തണുത്ത ദ്രാവകത്തിനുള്ള താപ ശേഷി നിരക്ക് Cc ചൂടുള്ള ദ്രാവകത്തിന് Ch എന്നിവയുടെ അനുപാതമാണ് അതിനാൽ CcCh തണുത്ത ദ്രാവകത്തിന്റെ m ഡോട്ട് Cp യുടെ R അനുപാതം ചൂടുള്ള ദ്രാവകത്തിന്റേതാണ് ഇതിനെ താപ ശേഷി നിരക്ക് അനുപാതം എന്ന് വിളിക്കുന്നു തുടർന്ന് ഇത് ഈ ഭൌതിക പാരാമീറ്ററുകളെ മാത്രമല്ല ഫ്ലോ ക്രമീകരണത്തെയും ആശ്രയിച്ചിരിക്കും അതിനാൽ പൊതുവെ നമുക്ക് ലഭിക്കുന്നത് Q എന്ന് അർത്ഥമാക്കുന്നത് ഈ എക്സ്പ്രഷൻ വഴിയുള്ള താപ കൈമാറ്റം u ആണ് അവിടെ u മൊത്തത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഫിഷ്യന്റ് a ആണ് ഏരിയ F എന്നത് തിരുത്തൽ ഘടകമാണ് ഇതാണ് ഞങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ചത് ഇത് P യുടെ പ്രവർത്തനമായിരിക്കും കൂടാതെ R തീർച്ചയായും കൌണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനായുള്ള ഫ്ലോ അറേഞ്ച്മെന്റും തുടർന്ന് ഡെൽറ്റ TLM കൌണ്ടർ ഫ്ലോയും ഏത് ഡെൽറ്റ ടി ആയാലും ഞങ്ങൾ ഡെൽറ്റ TLM ചെയ്യും നമുക്ക് എന്ത് LMTD ലഭിക്കും കൌണ്ടർ ഫ്ലോ ക്രമീകരണം പരിഗണിക്കുമ്പോൾ നമുക്ക് ലഭിക്കും അപ്പോൾ എഫ് F എന്നത് എഫ് എന്നത് ഒരു സംഖ്യയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് തീർച്ചയായും കൌണ്ടർ ഫ്ലോ ക്രമീകരണത്തിൽ നമുക്ക് പരമാവധി താപ കൈമാറ്റം ലഭിക്കുന്നു അത് 2 സ്ട്രീമുകൾക്കിടയിൽ പരമാവധി താപ വിനിമയത്തിന് ഏറ്റവും സഹായകമാണ് അതിനാൽ കൌണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ പരിഗണിക്കുകയാണെങ്കിൽ F മൂല്യം ഒന്നിന് തുല്യമായിരിക്കും ഇപ്പോൾ അത് കൌണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ല എങ്കിൽ വ്യക്തമായും മൂല്യം ഒന്നിൽ കുറവായിരിക്കും അതിനാൽ കണക്കുകൂട്ടൽ എളുപ്പത്തിനായി ഇതിനകം കണക്കാക്കിയതും ലഭ്യമാക്കിയതുമായ ഇത്തരത്തിലുള്ള വളവുകൾ ഞങ്ങൾക്കുണ്ടാകും അതിനാൽ ഇത് നിങ്ങളുടെ എഫ് ആണെന്നും ഇത് P യുടെ ഒരു ഫംഗ്ഷനാണെന്നും ഇവിടെ R എന്നത് പരാമീറ്ററായി എടുക്കുന്നുവെന്നും നിങ്ങൾ ഇവിടെ കാണുന്നു അതിനാൽ വ്യത്യസ്ത വളവുകൾ R ന്റെ വ്യത്യസ്ത മൂല്യങ്ങൾക്കുള്ളതാണ് അത് ഫ്ലോ ക്രമീകരണത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ഇത് ഒരു പ്രത്യേക തരം ഹീറ്റ് എക്സ്ചേഞ്ചറിനുള്ളതാണ് അവിടെ ഇതുപോലെ 2 പാസുകൾ ഉണ്ട് ഇതുപോലുള്ള 4 പാസുകളുള്ള മറ്റൊരു ഹീറ്റ് എക്സ്ചേഞ്ചറിനാണ് ഇത് അതിനാൽ ഓരോ ഹീറ്റ് എക്സ്ചേഞ്ചർ ക്രമീകരണത്തിനും ഞങ്ങൾക്ക് ഇതുപോലുള്ള വളവുകൾ ലഭിച്ചു അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ ഒരു പ്രത്യേക ദ്രാവക പ്രവാഹ ക്രമീകരണത്തിനായി വക്രം എടുക്കണം തുടർന്ന് P R എന്നിവയുടെ മൂല്യവും ഞങ്ങൾ ഇതിനകം തിരഞ്ഞെടുത്ത ഈ പ്രത്യേക വക്രത്തിൽ നിന്നും അറിയേണ്ടതുണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചറിനായി നമുക്ക് F ന്റെ മൂല്യം ലഭിക്കേണ്ടതുണ്ട് തുടർന്ന് ഞങ്ങൾ ഇതിനകം സൂചിപ്പിച്ച ഫോർമുല ഉപയോഗിക്കാം കൂടാതെ താപ കൈമാറ്റത്തിന്റെ നിരക്ക് എത്രയെന്ന് നമുക്ക് ലഭിക്കും അതിനാൽ F R ന്റെ ഒരു ഫംഗ്ഷനാണെന്നും ഫ്ലോ അറേഞ്ച്മെന്റാണെന്നും ഈ പ്രത്യേക സ്ലൈഡിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് എന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ താപ കൈമാറ്റ നിരക്ക് നിർണ്ണയിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് ഇൻലെറ്റിലും എക്സിറ്റിലും ഉള്ള 2 സ്ട്രീമുകളുടെ താപനില സെറ്റ് 4 താപനിലകൾ നൽകുന്നു അതിനാൽ അവിടെ നിന്ന് നമുക്ക് താപ കൈമാറ്റ നിരക്ക് എത്രയാണെന്ന് നിർണ്ണയിക്കാനാകും അതിനാൽ ഉപയോഗിക്കാവുന്ന F LMTD ഫോർമുലയായ ഇത്തരത്തിലുള്ള സൂത്രവാക്യം ഒരു സാധാരണ തരത്തിലുള്ള വിശകലനത്തിന് ഇത് സാധാരണമാണ് അതിനാൽ തുടക്കത്തിൽ 4 താപനിലകൾ അറിയാമെന്ന് കരുതുക ഏതെങ്കിലും തരത്തിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചർ രൂപകൽപ്പന ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് എന്താണെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം നമുക്കറിയാം Q അതാണ് നമ്മൾ പോകേണ്ട താപ കൈമാറ്റത്തിന്റെ നിരക്കും നമുക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന 4 താപനിലയും അതിനാൽ ഈ 2 കാര്യങ്ങൾ പരിഹരിച്ചു തുടർന്ന് ഞങ്ങൾക്ക് ഒഴുക്ക് ക്രമീകരണം ഉണ്ട് അതിനർത്ഥം ഏതുതരം ട്യൂബ് ആണോ ട്യൂബ് ഡയമെറ്റ് മീറ്റർ മുതലായവ അത് കൌണ്ടർ ഫ്ലോ ആയാലും സമാന്തര പ്രവാഹമായാലും അതിനാൽ അത്തരം ക്രമീകരണവും ട്യൂബ് വ്യാസവും അതായത് ജ്യാമിതി മുതലായവ അറിയപ്പെടുന്ന ജ്യാമിതിയുടെ തരമാണ് അതിനാൽ നിങ്ങൾക്ക് Q അറിയാമോ അപ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ TLM അറിയാം നിങ്ങൾ തിരഞ്ഞെടുത്ത ട്യൂബ് വ്യാസം കാരണം മൊത്തത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഫിഷ്യന്റ് അറിയപ്പെടുന്നു അവിടെ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഫിഷ്യന്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അടിസ്ഥാനപരമായി ഒരാൾക്ക് നിങ്ങൾ ഒരു തവണ കണക്കാക്കാം a അപ്പോൾ ഒരുപക്ഷേ ഒന്നുകിൽ ട്യൂബുകളുടെ എണ്ണം അല്ലെങ്കിൽ ട്യൂബ് നീളം നിങ്ങൾക്ക് കണക്കാക്കാം അതിനാൽ ഇത് രൂപകൽപ്പനയ്ക്കോ പുതിയ രൂപകൽപ്പനയ്ക്കോ വളരെ അനുയോജ്യമായ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞ രീതി അത്ര ലളിതമല്ല കാരണം നിങ്ങൾക്കും അവയ്ക്കും ഡെൽറ്റ ടി ക്യൂ എന്നിവയിൽ പോലും പരസ്പരം ബന്ധമുണ്ടാകാം എനിക്ക് ക്യു ഡെൽറ്റ ടി എന്നിവ വെവ്വേറെ അറിയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനാൽ എന്തെങ്കിലും തരത്തിലുള്ള ആവർത്തന നടപടിക്രമങ്ങൾ ആവശ്യമായി വരാം പക്ഷേ ഡിസൈനിനായി 4 താപനിലകൾ അറിയാമെങ്കിൽ ഈ F LMTD രീതി വളരെ നല്ല രീതിയാണ് നിർഭാഗ്യവശാൽ പല കേസുകളിലും ഈ 4 താപനിലകൾ അറിയില്ല നമുക്ക് 2 ഇൻലെറ്റ് താപനില മാത്രമേ പറയൂ എന്ന് ഞങ്ങൾക്കറിയാം മറ്റ് ചില അളവ് ഞങ്ങൾക്കറിയാം അതിനാൽ എഫ് എൽഎംടിഡി രീതി വളരെ റൌണ്ട് എബൌട്ട് രീതിയായി മാറുന്നു അത്തരം വിശകലനത്തിനോ പ്രശ്നങ്ങൾക്കോ പ്രയോഗിക്കുന്നത് അസാധ്യമായ ഒരു ടിഡിഎസ് രീതിയാണ് പക്ഷേ ഇത് കുറച്ച് സമയമെടുക്കുന്ന ടിഡിഎസിന് കൂടുതൽ ആവർത്തനങ്ങൾ ആവശ്യമാണ് അതിനാൽ ജീവിതം അൽപ്പം ലളിതമാക്കുന്ന മറ്റൊരു രീതി ഉണ്ടായിരിക്കണം അതിനാൽ ആ രീതിയെ ഫലപ്രാപ്തി NTU രീതി എന്ന് വിളിക്കുന്നു കൂടാതെ NTU രീതി ബാധകമാകുന്ന ഫലപ്രാപ്തിയെക്കുറിച്ച് വളരെ ഹ്രസ്വമായ ഒരു അവലോകനം ഞങ്ങൾ നടത്തുന്നു ദ്രാവക സ്ട്രീമുകളുടെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് താപനില അറിയാത്തപ്പോൾ ദ്രാവക താപനില അറിയില്ല ഇൻലെറ്റ് അല്ലെങ്കിൽ എക്സിറ്റ് താപനില വ്യത്യാസം ഈ 2 കാര്യങ്ങളുടെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രീതി അതായത് ഒന്ന് Cc പ്രകാരം UA ആണ് അല്ലെങ്കിൽ അത് C min ആയിരിക്കാം മറ്റൊന്ന് താപം ക്ഷമിക്കണം മറ്റൊന്ന് താപ ശേഷി നിരക്ക് അനുപാതം ഇപ്പോൾ അളവില്ലാത്ത രൂപത്തിൽ ഞങ്ങൾ Cs സ്റ്റാർ എന്ന് വിളിക്കുന്ന ഒരു പദം അവതരിപ്പിക്കുന്നു അതിനെയാണ് ശേഷി നിരക്ക് അനുപാതം അല്ലെങ്കിൽ താപ ശേഷി നിരക്ക് അനുപാതം എന്ന് വിളിക്കുന്നത് ഇത് C min by C max ആണ് ഇവിടെ C min ഉം C max ഉം യഥാക്രമം Ch Cc യുടെ 2 മാഗ്നിറ്റ്യൂഡുകളിൽ ചെറുതും വലുതുമാണ് cc നക്ഷത്രം 1 ന് തുല്യമായിരിക്കും അതിനാൽ ഇത് ഞങ്ങളുടെ വിശകലനത്തിനുള്ള ഒരു പ്രധാന പാരാമീറ്ററാണ് എക്സ്ചേഞ്ചർ ഹീറ്റ് എക്സ്ചേഞ്ചർ ഹീറ്റ് ട്രാൻസ്ഫർ ഫലപ്രാപ്തി അല്ലെങ്കിൽ ഈ ഫലപ്രാപ്തി എപ്സിലോൺ ഹീറ്റ് എക്സ്ചേഞ്ചറിലെ യഥാർത്ഥ ഹീറ്റ് ട്രാൻസ്ഫർ നിരക്കും താപവൈദ്യുതപരമായി പരിമിതമായ പരമാവധി സാധ്യതയുള്ള താപ കൈമാറ്റ നിരക്കും തമ്മിലുള്ള അനുപാതമാണിത് അതിനാൽ ഈ Q ഡോട്ട് mcp h ന് തുല്യമായതിനാൽ Q ഡോട്ട് യഥാർത്ഥ താപ കൈമാറ്റ നിരക്ക് എന്താണ് അതായത് ചൂടുള്ള ദ്രാവക വശത്തിന്റെ mcp ചൂടുള്ള സ്ട്രീമിലെ താപനില വ്യതിയാനത്താൽ ഗുണിച്ചാൽ അല്ലെങ്കിൽ അത് തണുത്ത ദ്രാവക വശത്തിന്റെ m dot Cp ആണ് Cc യേക്കാൾ കൂടുതലാണെങ്കിൽ തണുത്ത സ്ട്രീമിന്റെ താപനില മാറ്റത്താൽ ഗുണിച്ചാൽ നമുക്ക് ലഭിക്കും ഈ ബന്ധം അല്ലെങ്കിൽ നമുക്ക് ഈ ബന്ധത്തിന് സാധ്യമായ പരമാവധി താപ കൈമാറ്റം ലഭിക്കും പരമാവധി താപനില വ്യത്യാസത്തിന് വിധേയമായേക്കാവുന്ന ദ്രാവകം കുറഞ്ഞ താപ ശേഷി നിരക്ക് C ശരാശരി ഉള്ള ദ്രാവകമാണ് നമുക്ക് ഇത് എങ്ങനെ ലഭിക്കും എന്ന് നോക്കാം അതിനാൽ സാധ്യമായ പരമാവധി താപ കൈമാറ്റം പ്രകടിപ്പിക്കുന്നത് Q max m dot Cp c ന് തുല്യമാണ് അതായത് cc Ch നേക്കാൾ കുറവാണെങ്കിൽ Thi minus Tci ആണ് അല്ലെങ്കിൽ Q max എന്നത് m ഡോട്ട് Cp h ന് തുല്യമാണ് Thi minus Tci കൊണ്ട് ഗുണിച്ചാൽ അതിനാൽ ഇത് പരമാവധി താപ കൈമാറ്റം ആയിരിക്കും അതിനാൽ നമുക്ക് Ch അല്ലെങ്കിൽ cc ഉപയോഗിക്കാൻ താൽപ്പര്യമുണ്ടോ എന്നതിനെ ആശ്രയിച്ച് ഫലപ്രാപ്തി ഇതുപോലെ നിർവചിക്കാം അതിനാൽ തെർമോഡൈനാമിക്സ് ലംഘിക്കാതെ അല്ലെങ്കിൽ രണ്ടാമത്തെ നിയമം ലംഘിക്കാതെ സാധ്യമായ പരമാവധി താപനില വ്യത്യാസം ഇതാണ് അതിനാൽ ഫലപ്രാപ്തിയുടെ നിർവചനം ഇതാണ് മുകളിൽ പറഞ്ഞ സമവാക്യം എല്ലാ ഹീറ്റ് എക്സ്ചേഞ്ചർ ഫ്ലോ എലമെന്റിനും സാധുതയുള്ളതാണ് എപ്സിലോൺ ശ്രേണികളുടെ മൂല്യം 0 നും ഒന്നിനും ഇടയിലായിരിക്കും ഫലപ്രാപ്തി അറിയാമെങ്കിൽ സമവാക്യം Q യുടെ നിർണ്ണയത്തിൽ നിർണ്ണയിക്കുന്നതിനുള്ള പദപ്രയോഗം നൽകുന്നു അതിനാൽ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഫലപ്രാപ്തി എനിക്കറിയാമെന്ന് കരുതുക തുടർന്ന് Q നെ തി മൈനസ് Tci കൊണ്ട് ഗുണിച്ചാൽ m ഡോട്ട് Cp ഉപയോഗിച്ച് നിർണ്ണയിക്കാനാകും സാധാരണയായി ഇൻലെറ്റ് താപനില അറിയപ്പെടുന്നു അതിനാൽ ഈ രീതി ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനം നിങ്ങൾ കാണുന്നു അതിനാൽ എനിക്ക് ഇൻലെറ്റ് താപനില അറിയാമെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഫലപ്രാപ്തി എന്തായിരിക്കുമെന്ന് ഞാൻ ഇതിനകം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രൂപകൽപ്പന ചെയ്യാൻ പോകുന്നു അതിനാൽ എന്റെ ഫലപ്രാപ്തിയും അറിയപ്പെടുന്നു അപ്പോൾ എനിക്ക് Q മൂല്യം ലഭിക്കും അല്ലെങ്കിൽ തിരിച്ചും ഇൻലെറ്റ് താപനില അറിയാമെന്നിരിക്കട്ടെ എനിക്ക് എത്ര താപം എക്സ്ട്രാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ നൽകണം എന്ന് എനിക്കറിയാം ഈ പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് എനിക്ക് ഫലപ്രാപ്തി അറിയാനാകും എന്റെ ചൂട് എക്സ്ചേഞ്ചറിന്റെ ഇപ്പോൾ നമ്മൾ അടുത്ത പാരാമീറ്ററിലേക്ക് വരുന്നു അടുത്ത പാരാമീറ്റർ NTU ആണ് NTU യുടെ പൂർണ്ണ രൂപം ട്രാൻസ്ഫർ യൂണിറ്റിന്റെ എണ്ണമാണ് ഇത് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ വലുപ്പത്തെക്കുറിച്ച് ചില ആശയങ്ങൾ നൽകുന്നു അതിനാൽ NTU യെ നിർവചിച്ചിരിക്കുന്നത് AU എന്നത് സി അർത്ഥം കൊണ്ട് ഹരിച്ചാണ് അവിടെ A എന്നത് ഏരിയയാണ് U എന്നത് മൊത്തത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഫിഷ്യന്റ് ആണ് C ശരാശരി എന്നത് Ch Cc എന്നിവയുടെ ഏറ്റവും കുറഞ്ഞതാണ് അതിനാൽ ഒരിക്കൽ ഞങ്ങൾക്ക് NTU ലഭിച്ചുകഴിഞ്ഞാൽ അത് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ വലുപ്പത്തെ സൂചിപ്പിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞതുപോലെ അത് ഹീറ്റ് എക്സ്ചേഞ്ചറിലെ ദ്രാവകത്തിന്റെ താമസ സമയത്തെയും സൂചിപ്പിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി താപ കൈമാറ്റ നിരക്ക് വളരെ വലുതാണോ അതോ വളരെ ചെറുതാണോ എന്ന് കൈമാറ്റം സംബന്ധിച്ച് ആശയം നൽകുന്നു അതിനാൽ ആപേക്ഷികമായി നമുക്ക് NTU യുടെ 2 മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ NTU യുടെ ഉയർന്ന മൂല്യം നൽകുന്ന സമാന തരം ഹീറ്റ് എക്സ്ചേഞ്ചറിന് ഇത് ഒരു ആപേക്ഷിക തരത്തിലുള്ള വസ്തുവാണ് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ വലുപ്പം കൂടുതലോ ദ്രാവകത്തിനുള്ളിലോ ഇതുപോലെ കൂടുതൽ നേരം നിലനിൽക്കും പിന്നെ എന്താണ് പ്രധാനം ഫലപ്രാപ്തിയും NTU അവ കൌണ്ടർ ഫ്ലോയുമായി അദ്വിതീയമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ഇനിപ്പറയുന്ന പദപ്രയോഗം ലഭിക്കുന്നു ഇത് ഫലപ്രാപ്തിക്കും NTU നും ഇടയിലാണ് Cc Ch നേക്കാൾ കുറവാണെങ്കിൽ സമാനമായിരിക്കുക സമാന്തര പ്രവാഹത്തിന്റെ കാര്യത്തിൽ ഫലം സമാനമായിരിക്കും ഇനിപ്പറയുന്ന പദപ്രയോഗം ലഭിക്കുന്നതിന് സമാനമായ ഒരു വിശകലനം പ്രയോഗിക്കാവുന്നതാണ് ഈ പദപ്രയോഗം സമാന്തര പ്രവാഹത്തിന് നമുക്ക് ലഭിക്കും അതിനാൽ ഈ പദപ്രയോഗങ്ങൾ അൽപ്പം സങ്കീർണ്ണമാണെന്ന് നിങ്ങൾ കാണുന്നു എന്നാൽ NTU യും ഫലപ്രാപ്തിയും തമ്മിൽ ഒരു അദ്വിതീയ ബന്ധമുണ്ട് നമുക്ക് ഒരെണ്ണം അറിയാമെങ്കിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് ലഭിച്ച കാര്യങ്ങൾ മറ്റൊന്ന് നിർണ്ണയിക്കാൻ കഴിയും ഫലപ്രാപ്തിക്കായി നമുക്ക് കർവുകൾ ലഭിച്ചു അല്ലെങ്കിൽ NTU വക്രങ്ങളുടെ രൂപത്തിൽ ഗ്രാഫിക്കായി പ്രകടിപ്പിക്കുന്ന ഫലങ്ങൾ ഉണ്ട് അതിനാൽ ഇത് തീർച്ചയായും എളുപ്പമാകും ഇക്കാലത്ത് ഡിജിറ്റൽ കമ്പ്യൂട്ടിംഗിന്റെ സഹായത്തോടെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളുടെ കണക്കുകൂട്ടൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ധം കൈകാര്യം ചെയ്യുന്നത് കുട്ടികളുടെ കളിയാണ് അതിനാൽ ഇത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാൽ സമാന്തര പ്രവാഹത്തിനും കൌണ്ടർ ഫ്ലോയ്ക്കുമുള്ള ബന്ധം ഞാൻ മുമ്പ് നൽകിയത് പോലെ തന്നെ ഞാൻ നൽകിയിട്ടുണ്ട് മറ്റ് തരത്തിലുള്ള ഫ്ലോ ക്രമീകരണം ഉണ്ടാകാം അവർക്കുവേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു പ്രത്യേക സാഹചര്യം രണ്ട് ദ്രാവകങ്ങൾക്കും താപ ശേഷി നിരക്ക് തുല്യമാണ് തുടർന്ന് C മാക്സ് 1 ന് തുല്യമാണ് കൂടാതെ NTU എന്നത് NTU കൊണ്ട് ഹരിച്ചാൽ ഫലപ്രാപ്തി നൽകുന്നത് കൌണ്ടർ ഫ്ലോയ്ക്കും ഫലപ്രാപ്തിക്കും ആണ് സമാന്തര പ്രവാഹത്തിനായുള്ള ഈ മൂല്യം സി മാക്സിന്റെ ശരാശരി 0 ന് തുല്യമാണ് ഇത് മറ്റൊരു പ്രത്യേക സാഹചര്യമാണ് ചില ദ്രാവക സ്ട്രീം അതിന്റെ മുഖം മാറുകയാണെങ്കിൽ അതിന്റെ മുഖം മാറുന്ന ദ്രാവക സ്ട്രീമിൽ ഒന്ന് ഉണ്ടാകും തുടർന്ന് താപനില വ്യത്യാസം ഇൻലെറ്റും ഔട്ട്ലെറ്റും 0 ന് തുല്യമാണ് തുടർന്ന് പരിമിതമായ താപ കൈമാറ്റത്തിന് സി മൂല്യം വളരെ വലുതായിരിക്കണം ഇത് ഇൻലെറ്റ് പോയിന്റിനും ഔട്ട്ലെറ്റ് പോയിന്റിനും ഇടയിൽ കുറച്ച് പരിമിതമായ താപ കൈമാറ്റം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് അത് ലഭിക്കും C min by C max എന്നത് ബോയിലറിന്റെയും കണ്ടൻസറിന്റെയും കാര്യത്തിലെന്നപോലെ 0 ന് തുല്യമാണ് അതിനാൽ നമുക്ക് ഇത്തരത്തിലുള്ള സമവാക്യം എപ്സിലോണായി മാറുന്നു പൊതുവെ മൈനസ് NTU യുടെ 1 മൈനസ് എക്സ്പോണൻഷ്യലിന് തുല്യമാണ് എപ്സിലോൺ എന്നത് NTU C സ്റ്റാറിന്റെ ഒരു ഫംഗ്ഷനാണ് കൂടാതെ F വ്യത്യസ്ത തരത്തിലുള്ള കാർഡിനായി നമുക്ക് ലഭിച്ചതുപോലെ വീണ്ടും ഫ്ലോ ക്രമീകരണമാണ് അതിനാൽ ഇത്തരത്തിലുള്ള ബന്ധത്തിനും നമുക്ക് വ്യത്യസ്ത തരം കാറുകൾ ഉണ്ടായിരിക്കാം LMTD രീതിക്കായി ഞങ്ങൾ കാണിച്ച 2 കേസുകൾ അതേ 2 കേസുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഒരു പ്രത്യേക ഫ്ലോ ക്രമീകരണത്തിനുള്ള ഫ്ലോ ക്രമീകരണമാണ് നമുക്ക് ഒരു സാധാരണ കട്ട് ലഭിക്കും അതിനാൽ ഇത് c മാക്സ് കൊണ്ട് അർത്ഥമാക്കുന്നു ഈ വശത്ത് നമുക്ക് NTU ഉണ്ട് NTU യുടെ പ്രവർത്തനമെന്ന നിലയിൽ നമുക്ക് ചൂട് എക്സ്ചേഞ്ചറിന്റെ ഫലപ്രാപ്തി ഉണ്ടാകും അതിനാൽ ഫ്ലോ ക്രമീകരണത്തെ ആശ്രയിച്ചിരിക്കുന്ന NTU യുടെ പ്രവർത്തനമായ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഫലപ്രാപ്തി കൂടാതെ c സ്റ്റാർ മൂല്യത്തെ ആശ്രയിച്ചിരിക്കുന്നു അത് c മിനിമം മുതൽ c മാക്സിമം ആണ് അതിനാൽ ഇതുപോലുള്ള വളവുകൾ ഉണ്ട് അതിനാൽ ഈ കർവുകൾ ഉപയോഗിച്ച് നമുക്ക് ഫലപ്രാപ്തി NTU രീതി ഉപയോഗിക്കാനാകും കൂടാതെ ഒരു തരം പ്രശ്നത്തെ ആശ്രയിച്ച് നമുക്ക് ഇപ്പോൾ കണക്കുകൂട്ടൽ നടത്താം F LMTD രീതിയോ ഫലപ്രാപ്തി NTU രീതിയോ സ്വീകരിക്കേണ്ടതുണ്ട് NTU രീതി ഫലപ്രദമാക്കുന്നതിലൂടെ ഈ രീതി ഒഴിവാക്കാനാകും ഈ പോയിന്റുകൾ വ്യക്തമാക്കുന്നതിന് ഞങ്ങൾ ചില ഉദാഹരണങ്ങൾ എടുക്കും തുടർന്ന് മാലിന്യ ചൂട് വീണ്ടെടുക്കുന്നതിന് ചൂട് എക്സ്ചേഞ്ചറുകൾ എങ്ങനെ വളരെ പ്രസക്തമാണെന്ന് ഞങ്ങൾ കാണും